ഇൻഡസ്ട്രി 4 0 കാഴ്ചപ്പാട് ഒരു ബിസിനസ്സ് കാഴ്ചപ്പാടിൽ ഇൻഡസ്ട്രി 4 0 ന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ സംസാരിക്കുന്ന സ്മാർട്ട്നെസും കണക്റ്റിവിറ്റിയും നോക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഈ വ്യത്യസ്ത പ്രശ്നങ്ങളിലേക്ക് ആഴത്തിൽ നോക്കാൻ ശ്രമിക്കുന്നു ഒന്നാമതായി ഇൻഡസ്ട്രി 4 0 ൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു നമ്മൾക്ക് ഈ കണക്റ്റിവിറ്റി കണക്റ്റുചെയ്ത യന്ത്രങ്ങൾ എല്ലായിടത്തും കണക്റ്റിവിറ്റി സെൻസിംഗ് കണക്റ്റിവിറ്റി തുടങ്ങിയവ ആവശ്യമാണ് എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇത്തരത്തിലുള്ള കണക്റ്റുചെയ്ത ഉൽപ്പന്നങ്ങൾ ആവശ്യമായി വരുന്നത് അതിൽ എന്താണ് നല്ലത് എന്തുകൊണ്ടാണ് നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്ന് കണക്റ്റുചെയ്ത ഉൽപ്പന്നങ്ങളിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നത് ഈ യന്ത്രസാമഗ്രികളുടെ ഈ വ്യത്യസ്ത ഉത്പന്നങ്ങൾ തമ്മിലുള്ള ബന്ധം എന്തുകൊണ്ട് നമുക്ക് ആവശ്യമാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഈ യന്ത്രശാലകളെ മികച്ചതാക്കേണ്ടത് ഒന്നാമതായി ഈ ഭൌതിക വസ്തുക്കളെയും വ്യവസായങ്ങളിലെ വ്യത്യസ്ത യന്ത്രങ്ങളെയും ബന്ധിപ്പിക്കുന്നതിന് ഈ കണക്റ്റിവിറ്റി ആവശ്യമാണ് രണ്ടാമത്തെ കാര്യം ഈ ഭൌതിക വസ്തുക്കളിൽ നിന്ന് ഈ വ്യത്യസ്ത ഡാറ്റ ശേഖരിക്കുകയും അവയ്ക്കിടയിൽ പരസ്പരം പങ്കിടുകയും ഡാറ്റ വിശകലനം ചെയ്യാൻ പോകുന്ന മറ്റൊരിടത്തേക്ക് ചില നെറ്റ്വർക്ക് വഴി പങ്കിടുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് ഈ കണക്റ്റിവിറ്റി അനിവാര്യമായും ആവശ്യമാണ് കാരണം ഈ കണക്റ്റിവിറ്റിയിലൂടെയും സ്മാർട്ട് കാഴ്ചപ്പാടിലൂടെയും നമ്മൾ മൊത്തം വിഭവശേഷി വർദ്ധിപ്പിക്കും വിഭവ ഉപഭോഗം വിഭവ വിനിയോഗം ഉൽപാദന പ്രക്രിയയിലെ മൊത്തത്തിലുള്ള ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തൽ എന്നിവയിൽ മൊത്തത്തിലുള്ള കാര്യക്ഷമത വർദ്ധിപ്പിക്കും മെച്ചപ്പെട്ട വിഭവ കാര്യക്ഷമത മെച്ചപ്പെട്ട ഉൽപാദനക്ഷമത എന്നിവയാണ് നമ്മൾ സമർത്ഥവും ബന്ധിതവുമായ ബിസിനസ്സ് കാഴ്ചപ്പാട് സ്വീകരിക്കേണ്ടതിന്റെ കാരണങ്ങൾ അതുകൊണ്ട് ഒരിക്കൽക്കൂടി എന്തെല്ലാം നേട്ടങ്ങളാണ് ഉള്ളത് ഐഒടി കേന്ദ്രീകൃത പരിഹാരങ്ങൾ ഉപയോഗിക്കാതെ മുൻകാലങ്ങളിൽ ചെയ്തതിനേക്കാൾ വേഗത്തിൽ ഈ ഉൽപ്പന്നങ്ങൾ വേഗത്തിൽ നിർമ്മിക്കാൻ നമ്മൾ പോകുന്നു വിലകുറഞ്ഞ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കാൻ പോകുന്നു ഈ സ്മാർട്ട് സൊല്യൂഷനുകളുടെ എന്നിവ സംയോജിപ്പിച്ച് ഈ തിരിച്ചുവിളിക്കൽ പ്രക്രിയ മെച്ചപ്പെടുത്താനാകും കുറഞ്ഞ പാരിസ്ഥിതിക ആഘാതം മറ്റൊന്ന് ഒടുവിൽ മെച്ചപ്പെട്ട വിതരണ ശൃംഖല സ്മാർട്ട് വിതരണ ശൃംഖല സ്മാർട്ട് കണക്റ്റുചെയ്ത ഉൽപ്പന്നങ്ങളുടെ വ്യത്യസ്ത നേട്ടങ്ങൾ ഇവയാണ് മികച്ച സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ കേന്ദ്രമായ സെൻസറുകളുടെ ഉപയോഗമാണ് കണക്റ്റുചെയ്യുന്നതിനുള്ള മാധ്യമം സെൻസറുകൾ ആക്യുവേറ്ററുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ സെൻസറുകളും ആക്റ്റേറ്ററുകളും എല്ലാം ഈ സിസ്റ്റങ്ങളെ മികച്ചതാക്കും IoT ൽ നെറ്റ്വർക്ക് പ്രധാനമാണ് ക്ലൌഡും പ്രധാനമാണ് കാരണം ധാരാളം ഡാറ്റ വരുന്നു ആരാണ് ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത് സംഭരണത്തിന്റെ കാര്യത്തിലും പ്രോസസ്സിംഗിന്റെ കാര്യത്തിലും മറ്റും ക്ലൌഡ് വളരെയധികം ഡാറ്റ കൈകാര്യം ചെയ്യാൻ പോകുന്നു എല്ലാ ഉൾച്ചേർത്ത സിസ്റ്റങ്ങളിലും ഇത് ഏറ്റവും പ്രധാനമാണ് ഈ ഉൾച്ചേർത്ത സംവിധാനങ്ങളുടെ സഹായത്തോടെ ഈ വ്യത്യസ്ത വസ്തുക്കളെല്ലാം യോജിപ്പിച്ച് വ്യത്യസ്ത ഉൾച്ചേർത്ത ഉപകരണങ്ങളുള്ള ഭൌതിക വസ്തുക്കൾ വീണ്ടും സെൻസറുകൾ ആശയവിനിമയ ഉപകരണം ഉണ്ടാകും അതിനാൽ ഇവയെല്ലാം ഈ ഓരോ ഭൌതിക വസ്തുക്കളിലും ഉൾച്ചേർക്കപ്പെടും സ്മാർട്ട്നെസിനും കണക്റ്റിവിറ്റിക്കും വേണ്ട അടിസ്ഥാന നിർമാണ ഘടകങ്ങളാണ് ഇവ ഒന്നാം നമ്പർ ഉപഭോക്തൃ മൂല്യങ്ങൾ ലാഭത്തിന്റെ രൂപരേഖ പ്രധാന വിഭവങ്ങളും പ്രധാന പ്രക്രിയകളും ഉപഭോക്തൃ മൂല്യങ്ങൾ മൂല്യനിർണ്ണയത്തെക്കുറിച്ചാണ് അതിനാൽ മൂല്യനിർണ്ണയം എന്നതിനർത്ഥം നമ്മൾ സംസാരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം സംയോജിപ്പിക്കുന്നതിലൂടെയാണ് സ്മാർട്ട്നെസ് ഐഒടി സെൻസറുകൾ ആക്റ്റുവേറ്ററുകൾ എന്നിവ എങ്ങനെയാണ് ഉൽപ്പന്നം മെച്ചപ്പെടുത്താൻ പോകുന്നത് ഉപയോഗത്തിന്റെ കാര്യത്തിൽ ഒരു ഉപഭോക്തൃ കാഴ്ചപ്പാടിൽ ഉൽപ്പന്നം എങ്ങനെ മെച്ചപ്പെട്ടു മൂല്യനിർണ്ണയം എന്താണ് ഉൽപ്പന്നം നൽകുന്ന സേവനങ്ങൾ ഈ സേവനങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താൻ പോകുന്നു മൊത്തത്തിലുള്ള മൂല്യനിർണ്ണയം എന്താണ് അടുത്തത് ലാഭത്തിന്റെ രൂപരേഖയാണ് ലാഭം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു രൂപരേഖ കൊണ്ടുവരാൻ സ്മാർട്ട്നെസും കണക്റ്റിവിറ്റിയും സഹായിക്കും കമ്പനികളിലെ പ്രധാന വിഭവങ്ങളുടെ കാര്യക്ഷമത വ്യാവസായിക പ്രക്രിയകൾ നിർമ്മാണ പ്രക്രിയ എന്നിവ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് അവ കാലക്രമേണ ട്രാക്കുചെയ്യുകയും ഒപ്റ്റിമൈസ് ചെയ്യുകയും വേണം ഈ വ്യത്യസ്ത കീ പ്രക്രിയകൾക്കും ഇത് ബാധകമാണ് അടുത്ത കാര്യം ഈ സ്മാർട്ട് കണക്റ്റഡ് ഉൽപ്പന്നങ്ങളുടെ വ്യത്യസ്ത വിഭാഗങ്ങൾ എന്തൊക്കെയാണ് മോണിറ്റർ നിയന്ത്രണം ഒപ്റ്റിമൈസേഷൻ ഓട്ടോമേഷൻ ഇവ സ്മാർട്ട് കണക്റ്റഡ് ഉൽപ്പന്നങ്ങളുടെ വ്യത്യസ്ത വിഭാഗങ്ങളാണ് അതിനാൽ നിരീക്ഷണം നിയന്ത്രണം ഒപ്റ്റിമൈസേഷൻ ഓട്ടോമേഷൻ ഇവയാണ് സ്വയം മനസ്സിലാക്കുന്നത് വിഭവങ്ങളുടെ നിരീക്ഷണം സെൻസറുകൾ ഈ മെഷിനറി പോലുള്ള സെൻസർ സജ്ജീകരിച്ച വിഭവങ്ങൾ ബാഹ്യ ഡാറ്റാ ഉറവിടങ്ങൾ നിരീക്ഷിക്കൽ എന്നിവ പോലുള്ള വിഭവങ്ങൾ ഇവ പ്രധാനമാണ് അതിനാൽ എല്ലാത്തരം വ്യത്യസ്ത വിഭവങ്ങളുടെയും നിരീക്ഷണവും ഈ വ്യത്യസ്ത വിഭവങ്ങളുടെ ഉപയോഗത്തിലൂടെയുള്ള ഫലങ്ങളുടെ നിരീക്ഷണവും ഈ യന്ത്രത്തിന്റെ ആരോഗ്യ നിരീക്ഷണം ഉൽപ്പന്നങ്ങളുടെ ആരോഗ്യ നിരീക്ഷണം തുടങ്ങിയ ഫലങ്ങൾ എന്തെങ്കിലും കുറഞ്ഞുപോയിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും പ്രവർത്തനരഹിതമായ സമയം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അലേർട്ടുകൾ ജനറേറ്റ് ചെയ്യുന്നത് മൊത്തത്തിലുള്ള കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ഇത് മറ്റൊരു ഫലമാണ് കൂടാതെ പ്രതിബന്ധങ്ങൾക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യുന്നു നിരീക്ഷണത്തിന്റെ കാര്യത്തിൽ ഇത് മൂന്നാമത്തെ പ്രഭാവം കൂടിയാണ് റിസോഴ്സ് കൺട്രോൾ ഒപ്റ്റിമൈസേഷനായി ഉപയോഗിക്കുന്ന വ്യത്യസ്ത കസ്റ്റം ഡിസൈൻ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ വ്യത്യസ്തമായ മറ്റ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വിഭവങ്ങളുടെ നിയന്ത്രണം ഈ വ്യത്യസ്ത സോഫ്റ്റ്വെയറുകളുടെ ഉപയോഗത്തിലൂടെ ഈ വിഭവങ്ങളുടെ ഒപ്റ്റിമൈസേഷൻ ഒപ്റ്റിമൈസേഷൻ പ്രക്രിയയിലും ഫലങ്ങളിലും ഈ സോഫ്റ്റ്വെയർ സഹായിക്കും അന്തിമ ഉപയോക്താക്കളുടെ വ്യത്യസ്ത ആവശ്യകതകളെ അടിസ്ഥാനമാക്കി ഉൽപ്പന്നങ്ങളുടെ നിയന്ത്രണവും ഉൽപ്പന്നങ്ങളുടെ വ്യക്തിഗതമാക്കലും വ്യത്യസ്ത ഒപ്റ്റിമൈസേഷൻ സൊല്യൂഷനുകളുടെയും വ്യത്യസ്ത അൽഗോരിതങ്ങളുടെയും ഉപയോഗത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള പ്രകടനം യന്ത്രങ്ങൾ വിദൂര സേവനങ്ങൾ പ്രാപ്തമാക്കുക ഉൽപ്പന്നം നന്നാക്കാൻ സഹായിക്കുക എന്നിവയാണ് ഇതിന്റെ ഫലം ഈ ഉറവിടങ്ങളുടെ ഓട്ടോമേഷൻ നിരീക്ഷണം നിയന്ത്രണം ഒപ്റ്റിമൈസേഷൻ കഴിവുകൾ ഓട്ടോമേഷനായി വ്യത്യസ്ത സോഫ്റ്റ്വെയർ അൽഗോരിതങ്ങൾ ഉപയോഗിക്കേണ്ടിവരും കൂടാതെ പ്രഭാവം ഈ വ്യത്യസ്ത ഉൽപ്പന്നങ്ങളുടെ സ്വയംഭരണാധികാരമാണ് ബിസിനസ്സ് കാഴ്ചപ്പാടിൽ നിന്നുള്ള സ്മാർട്ട് സംവിധാനങ്ങൾ വളരെ പ്രധാനമാണ് അപ്പോൾ എന്താണ് ഈ ബിസിനസ് മോഡൽ എന്താണ് സ്മാർട്ട് ബിസിനസ് മോഡൽ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഈ സ്മാർട്ട് ബിസിനസ്സ് മോഡൽ വേണ്ടത് അതിനാൽ നിലവിലെ പ്രക്രിയകൾ വിലകുറഞ്ഞതും കൂടുതൽ കാര്യക്ഷമവുമാക്കുന്നതിനും വർദ്ധിച്ച വരുമാനം ലഭിക്കുമ്പോൾ മെച്ചപ്പെടുത്തുന്നതിനും നമ്മൾക്ക് സ്മാർട്ട് ബിസിനസ്സ് മോഡൽ ആവശ്യമാണ് അതിനാൽ നിങ്ങൾ പലപ്പോഴും പ്രതീക്ഷിക്കുന്ന ചില മിച്ചമുണ്ടാകാൻ നിങ്ങൾ പ്രതീക്ഷിച്ച വരുമാനവും കൈവരിക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ബിസിനസ്സ് മോഡൽ ഉണ്ടായിരിക്കണം അതായത് മൊത്തത്തിലുള്ള പ്രോസസ്സ് ചെലവ് കുറയ്ക്കുന്നതിനും പ്രക്രിയകൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും പ്രതീക്ഷിച്ച വരുമാനം നിറവേറ്റുന്നതിനും യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ച വരുമാനത്തെ മറികടക്കുന്നതിനും ഇത് സഹായിക്കും അതിനാൽ സ്മാർട്ട് ബിസിനസ്സ് മോഡൽ വാല്യൂ പ്രൊപ്പോസിഷന്റെ ചില പ്രധാന ഗുണങ്ങളാണ് ഇവ ഞാൻ നേരത്തെ ഒരുപാട് സംസാരിച്ചു അതിനാൽ ഉപഭോക്താവിന് ഉൽപ്പന്നത്തിന്റെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഉപഭോക്താക്കൾക്ക് എന്ത് മൂല്യമാണ് ലഭിക്കാൻ പോകുന്നത് മൂല്യ നിർദ്ദേശം നിങ്ങൾ ഒരു സ്മാർട്ട് ബിസിനസ്സ് മോഡൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഇത് ആദ്യത്തെ പ്രധാന ആട്രിബ്യൂട്ടാണ് വരുമാന സ്രോതസ്സ് എന്നാൽ വരുമാനത്തിന്റെ വ്യത്യസ്ത സ്രോതസ്സുകൾ എന്തൊക്കെയാണ് ഉത്പാദന പ്രക്രിയയിൽ സഹായിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പദ്ധതി ഏറ്റെടുക്കുന്നതിനോ വ്യത്യസ്ത സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം ലഭിക്കുന്ന വ്യത്യസ്ത ഉറവിടങ്ങൾ എന്തൊക്കെയാണ് അതിനാൽ വരുമാന സ്രോതസ്സായ വരുമാനത്തിന്റെ വ്യത്യസ്ത സ്രോതസ്സുകൾ എന്തൊക്കെയാണ് ഒടുവിൽ ആ വരുമാനം ഉൽപാദന പ്രക്രിയയിൽ സഹായിക്കുന്നതിന് ഉപയോഗിക്കാൻ പോകുന്നു വ്യത്യസ്ത ചെലവുകൾ വഹിക്കുന്നു അതിനാൽ അതാണ് വരുമാന മാർഗ്ഗം ഉപയോഗിക്കാൻ പോകുന്ന വ്യത്യസ്ത സാങ്കേതികവിദ്യകൾ ഒരു സ്മാർട്ട് ബിസിനസ്സ് മോഡലിന്റെ മൂന്ന് വ്യത്യസ്ത പ്രധാന ഗുണങ്ങളാണ് ഒരു സ്മാർട്ട് ബിസിനസ്സ് മോഡലിൽ മൂല്യനിർമ്മാണത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും വ്യത്യസ്ത വശങ്ങളും ഉണ്ട് അത് മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് പുതുമയുള്ള കേന്ദ്രമാണ് രണ്ടാമത്തേത് കാര്യക്ഷമത കേന്ദ്രവും ലോക്ക് ഇൻ കേന്ദ്രീകരണവും പരസ്പര പൂരകവുമാണ് ഈ നാല് വ്യത്യസ്ത വീക്ഷണങ്ങളാണ് മനസ്സിലാക്കേണ്ടത് ഒരു സ്മാർട്ട് ബിസിനസ്സ് മോഡലിൽ നിരീക്ഷിക്കേണ്ടത് പ്രധാനമാണ് നിങ്ങൾ ഒരു സ്മാർട്ട് ബിസിനസ്സ് മോഡൽ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ ഇവയാണ് പ്രധാന കാര്യങ്ങൾ നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട് നമ്മൾക്ക് ഒരു നിയന്ത്രണ സംവിധാനം ഉണ്ടായിരിക്കണം കുറച്ച് ഒപ്റ്റിമൈസേഷൻ ഉണ്ടായിരിക്കണം മെഷീനുകളുടെ ആരോഗ്യം നിരീക്ഷിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ നമ്മളുടെ പക്കലുണ്ട് അതിനാൽ മെഷീനുകളുടെ ആരോഗ്യം ചില പ്രവർത്തനങ്ങൾ നടത്തുക വ്യത്യസ്ത അലേർട്ടുകൾ വാഗ്ദാനം ചെയ്യുക അപ്പോൾ നിയന്ത്രണത്തിനായി നമുക്ക് എന്താണുള്ളത് ഉൽപ്പന്നത്തിന്റെ നിയന്ത്രണം വ്യക്തിഗതമാക്കൽ അതിനാൽ ഇഷ്ടാനുസൃത ആവശ്യകതകളെ അടിസ്ഥാനമാക്കി ഇത്തരത്തിലുള്ള നിയന്ത്രണവും വ്യക്തിഗതമാക്കലും നടത്താൻ കഴിയും നമ്മൾക്ക് ഒപ്റ്റിമൈസേഷൻ ഉണ്ട് ഇവിടെ വ്യത്യസ്ത ഒപ്റ്റിമൈസേഷൻ അൽഗോരിതങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ സിസ്റ്റത്തിന്റെ പ്രകടനം മെച്ചപ്പെടുത്താനും അങ്ങനെ പ്രകടനം തുടർന്ന് ഉൽപ്പന്ന റിപ്പയർ വിദൂര സേവനം എന്നിവ മെച്ചപ്പെടുത്താനും നമ്മൾ ആഗ്രഹിക്കുന്നു ഇത് ഒരു കാര്യമാണ് അതിനാൽ ഇവയെല്ലാം എന്തിന്റെ സഹായത്തോടെ ചെയ്യാം എന്താണ് നട്ടെല്ല് വ്യത്യസ്ത സെൻസറുകൾ ഡാറ്റാ സേവനങ്ങൾ ആക്റ്റേറ്ററുകൾ വാസ്തവത്തിൽ വ്യത്യസ്ത ആപ്ലിക്കേഷനുകൾ നെറ്റ്വർക്ക് എന്നിവയുടെ ഉപയോഗമാണ് നട്ടെല്ല് ഞാൻ പരാമർശിക്കാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അൽഗോരിതം ആണ് ഇവയെല്ലാം നേടാൻ സഹായിക്കുന്ന വ്യത്യസ്ത അൽഗോരിതങ്ങൾ നിരീക്ഷണത്തിനും നിയന്ത്രണ അൽഗോരിതങ്ങൾക്കും ഒപ്റ്റിമൈസേഷനുമുള്ള അൽഗോരിതങ്ങൾ അതിനാൽ നമുക്ക് ഇതുപോലുള്ള എന്തെങ്കിലും കൊണ്ടുവരേണ്ടതുണ്ട് ബിസിനസ് മോഡൽ നമ്മൾ സംസാരിച്ച ഈ മൊത്തത്തിലുള്ള കാര്യം നേടാൻ സഹായിക്കുന്ന ഒരു മികച്ച ബിസിനസ്സ് മോഡൽ അതിനാൽ ഒരു സ്മാർട്ട് ബിസിനസ്സ് മോഡൽ ഈ വ്യത്യസ്ത കാര്യങ്ങളെല്ലാം കണക്കിലെടുക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഒരു മികച്ച ബിസിനസ്സ് മോഡൽ വേണ്ടത് കാരണം കാര്യക്ഷമത ഉൽപാദനക്ഷമത എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് ബിസിനസ്സ് കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനായി സ്വയംഭരണ സംവിധാനങ്ങൾ കൈവരിക്കാൻ സഹായിക്കും ഈ മൂല്യവത്തായ വസ്തുത കാര്യക്ഷമത ലോക്ക് ഇൻ കോംപ്ലിമെന്ററിറ്റി എന്നിവയെക്കുറിച്ച് നമ്മൾ കണ്ടിട്ടുള്ള മൂല്യനിർണ്ണയത്തെയാണ് നമ്മൾ നോക്കുന്നത് ഉപഭോക്താക്കൾക്ക് മൂല്യമുള്ളതായിരിക്കാൻ ഉപഭോക്താക്കൾക്ക് ഉപകാരപ്രദമായ ഒരു മൂല്യ കേന്ദ്രീകൃത ബിസിനസ്സ് മോഡൽ നമുക്ക് ഉണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള മൂല്യ കേന്ദ്രീകൃത ബിസിനസ്സ് മോഡൽ പുതിയ വിപണികൾ തുറക്കും പുതിയ സേവനങ്ങൾ നൂതനവും പുതിയതുമായ പരിഹാരങ്ങൾ നൽകും ഉപഭോക്താക്കൾക്ക് ഇത് ഉപയോഗപ്രദമാകുന്നതിനുമുമ്പ് നമ്മൾ ഇല്ല അതിനാൽ മൂല്യ കേന്ദ്രീകൃതമാണ് അടുത്തത് കാര്യക്ഷമതയാണ് ഉൽപ്പന്നങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലെ കാര്യക്ഷമത വേഗത്തിലുള്ള ഉൽപാദനക്ഷമത ലളിതമായ ഉൽപാദന പ്രക്രിയകൾ സുതാര്യമായ ഉൽപാദന പ്രക്രിയകൾ ഇത് പിശകുകൾ ഇല്ലാതാക്കും അല്ലെങ്കിൽ പിശകുകളുടെ എണ്ണം കുറയ്ക്കും മൊത്തത്തിലുള്ള കാര്യക്ഷമത കേന്ദ്രീകരണം ലോക്ക് ഇൻ കേന്ദ്രീകൃത ബിസിനസ്സ് മോഡൽ ഉപഭോക്താവിനെ കുടിയേറ്റത്തിൽ നിന്ന് തടയുന്നു ഉപഭോക്താക്കൾ ഒരു വെണ്ടറിൽ നിന്ന് മറ്റൊന്നിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാത്ത കാലയളവിൽ ഒരു ലോക്ക് ഉണ്ടാകും ഇത് സ്വിച്ചിംഗ് ചെലവ് കുറയ്ക്കുന്നതിനും ഈ വ്യത്യസ്ത ഉപഭോക്താക്കൾ വിതരണക്കാർ അല്ലെങ്കിൽ വെണ്ടർമാർക്കിടയിൽ വിശ്വാസം വളർത്തുന്നത് മെച്ചപ്പെടുത്താനും സഹായിക്കും ഉൽപ്പന്നവും സേവനങ്ങളും ഓൺലൈൻ ഓഫ്ലൈൻ ആസ്തികൾ സാങ്കേതികവിദ്യകൾ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് കോംപ്ലിമെന്ററി ബിസിനസ്സ് മോഡൽ സംസാരിക്കുന്നു സ്മാർട്ട് ബിസിനസ്സ് മോഡൽ കൊണ്ടുവരാൻ ആവശ്യമായ ഈ പരസ്പര പൂരക കാര്യങ്ങൾ മൂല്യങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന പാളികളും സാങ്കേതികവിദ്യകളും എന്തൊക്കെയാണ് നമ്പർ ഒന്ന് ഫിസിക്കൽ ലെയർ ആണ് രണ്ടാമത്തേത് കണക്റ്റിവിറ്റി ലെയർ ആണ് മൂന്നാമത്തേത് ഡിജിറ്റൽ ലെയർ ആണ് ഈ വിഷയത്തിൽ സഹായിക്കാൻ കഴിയുന്ന മൊത്തത്തിലുള്ള വാസ്തുവിദ്യയാണ് ഇത് അതിൽ വ്യത്യസ്ത ഘടകങ്ങൾ ഇവയാണ് നമ്മൾക്ക് ഫിസിക്കൽ ലെയർ ഡിജിറ്റൽ ലെയർ കണക്റ്റിവിറ്റി ലെയർ എന്നിവയുണ്ട് അതിനാൽ ഈ ഓരോ പാളികളിലും നമ്മൾ സംസാരിക്കുന്നത് സെൻസറുകൾ മൈക്രോകൺട്രോളറുകൾ ഡിജിറ്റൽ ലെയർ നമ്മൾ പ്രോസസ്സറുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ വ്യത്യസ്ത അൽഗോരിതം നിർവ്വഹിക്കാൻ സഹായിക്കുന്ന പ്രക്രിയകളിൽ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളും അത് നടപ്പിലാക്കേണ്ടിവരും അതിനാൽ ഈ കാര്യങ്ങളെല്ലാം പ്രോസസ്സർ ഡിജിറ്റൽ ലെയറിൽ ശ്രദ്ധിക്കുന്നു സംഭരണം എന്നാൽ ഈ ഡാറ്റയുടെ സംഭരണം എന്നാണ് അർത്ഥമാക്കുന്നത് കണക്റ്റിവിറ്റിയുടെ കാര്യത്തിൽ ഈ വ്യത്യസ്ത സാങ്കേതികവിദ്യകളായ ZigBee Bluetooth 3G 4G NFC RFID Z Wave Wi Fi ഈ കോഴ്സിന്റെ അടിസ്ഥാന ആമുഖ ഘടകമാണ് ഇവയെല്ലാം കണക്റ്റിവിറ്റി ലെയറിന്റെ ഘടകങ്ങളാണ് മൊത്തത്തിലുള്ള വാസ്തുവിദ്യയിലെ മൂന്ന് പാളികൾ ഇവയാണ് സെൻസറുകളുടെ സഹായത്തോടെ ഡാറ്റ ശേഖരിക്കുന്നതിനും ഏറ്റെടുക്കുന്നതിനും ഫിസിക്കൽ ലെയർ ഉത്തരവാദിയാണ് കൂടാതെ വ്യത്യസ്ത മൈക്രോകൺട്രോളറുകളും മൈക്രോപ്രൊസസ്സറുകളും സജ്ജീകരിച്ചിരിക്കുന്നു കണക്റ്റിവിറ്റി ലെയർ മൊത്തത്തിലുള്ള കണക്റ്റിവിറ്റി സ്മാർട്ട് ഉപകരണങ്ങൾ സ്മാർട്ട് സേവനങ്ങൾ ഐപി നെറ്റ്വർക്കുകൾ സിഗ്ബീ എൻഎഫ്സി ബ്ലൂടൂത്ത് തുടങ്ങിയ വ്യത്യസ്ത കണക്റ്റിവിറ്റി സാങ്കേതികവിദ്യകളെക്കുറിച്ച് സംസാരിക്കുന്നു ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്ന ഡാറ്റ വിശകലനം ചെയ്യുന്നതും മറ്റും സംഭരിക്കുന്നതിനെക്കുറിച്ച് ഡിജിറ്റൽ പാളികൾ സംസാരിക്കുന്നു സ്മാർട്ട് കണക്റ്റഡ് ബിസിനസ് മോഡലിന്റെ രണ്ട് ഉദാഹരണങ്ങൾ ഇതാ ഒന്ന് ആമസോണിന്റെ ഡാഷ് ബട്ടൺ ആണ് ലോക്ക് ഇൻ വാല്യൂ പ്രൊപ്പോസിഷൻ ആണ് റവന്യൂ സ്ട്രീമുകൾ കുറഞ്ഞ ചിലവ് വരുമാന സ്ട്രീമുകളാണ് ഫിസിക്കൽ ലെയറിൽ വൈഫൈ പ്രവർത്തനക്ഷമമായ ഉൾച്ചേർത്ത ഉപകരണങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നു കണക്റ്റിവിറ്റി ലെയർ വൈഫൈ പ്രവർത്തനക്ഷമമാണ് ഡിജിറ്റൽ ലെയർ മൊബൈൽ ആപ്ലിക്കേഷനുകളിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്നു അതുപോലെ നമ്മൾക്ക് മറ്റ് ഉൽപ്പന്നമായ സെമിയോസ് ഉണ്ട് ഇത് മൊത്തത്തിൽ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു മൂല്യ നിർദ്ദേശം കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുള്ള കാര്യക്ഷമതയാണ് വാർഷിക സബ്സ്ക്രിപ്ഷനുകൾ 24X7 നിരീക്ഷണവും സഹായവും വഴിയാണ് വരുമാന മാർഗ്ഗങ്ങൾ ഭൌതിക പാളി മണ്ണിന്റെ ഈർപ്പം പ്രാണികൾ രോഗം കാലാവസ്ഥ നിരീക്ഷണം തുടങ്ങിയവയ്ക്കുള്ള സെൻസറുകളാണ് കണക്റ്റിവിറ്റി ലെയർ സെല്ലുലാർ ആണ് ഡിജിറ്റൽ ലെയർ വ്യത്യസ്ത മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉൾക്കൊള്ളുന്നു പ്രായോഗികമായി സ്മാർട്ട് കണക്റ്റഡ് ബിസിനസ് മോഡലുകൾ നടപ്പിലാക്കുന്നതിന്റെ രണ്ട് ഉദാഹരണങ്ങളാണ് ഇവ അതിനാൽ ഇവ വീണ്ടും ചില പരാമർശങ്ങളാണ് ഈ പ്രഭാഷണം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്തും എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിന്റെ മൊത്തത്തിലുള്ള ബിസിനസ്സ് കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ വളരെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു അതായത് വ്യവസായത്തിലേക്ക് പരിവർത്തനം ചെയ്യുക 4 ഈ സ്മാർട്ട് ഉപകരണങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യവസായ 4 0 ലേക്ക് പരിവർത്തനം ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു എല്ലാം സ്മാർട്ടാക്കുന്നതിലേക്ക് മാറാൻ നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷേ ചോദ്യം എന്തുകൊണ്ടാണ് നമ്മൾ മിടുക്കരാകേണ്ടത് മൂല്യനിർണ്ണയം എന്താണ് ഒരു ബിസിനസ് വീക്ഷണകോണിൽ നിന്ന് ഇത്തരത്തിലുള്ള ദത്തെടുക്കലിലൂടെ മെച്ചപ്പെടാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പാരമ്പര്യത്തിൽ നിന്ന് സമർത്ഥരായവരിൽ നിന്ന് കണക്റ്റുചെയ്തതിലൂടെയുള്ള പരിവർത്തനം ഇതാണ് ഈ പ്രത്യേക പ്രഭാഷണത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വ്യവസായത്തിന്റെ നിർമ്മാണത്തിന് വളരെ അത്യാവശ്യമാണ് 4 ഇത് വ്യവസായ തൊഴിലാളികളെയും പഠിപ്പിക്കേണ്ടതുണ്ട് അവർ 4 0 ലേക്കുള്ള ഈ പരിവർത്തനത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് കാരണം ഈ മൂല്യനിർണ്ണയവും ഇവയെല്ലാം ഉപയോഗിക്കുന്നതുവരെ പരിവർത്തനം തൊഴിലാളികൾ മനസ്സിലാക്കുന്നു അവർക്ക് ഈ പരിവർത്തനം ചെയ്യാൻ കഴിയില്ല അവർക്ക് ഈ പരിവർത്തനത്തെ അഭിനന്ദിക്കാൻ കഴിയില്ല അതിനാൽ മുഴുവൻ വ്യായാമവും പരാജയപ്പെട്ടേക്കാം ഇതോടൊപ്പം നമ്മൾ ഇവിടെ നിർത്തുന്നു ഈ പ്രഭാഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നീടുള്ള പ്രഭാഷണങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കും